മാഗ്നറ്റിക് മെറ്റീരിയലുകൾ II ബന്ധിതമായ കറൻറ് സാന്ദ്രതകൾ ഒരു പോയിന്റ് ഡൈപോൾ ഒരു വെക്റ്റർ പൊട്ടൻഷ്യൽ നൽകുമെന്നും ഇത് mu 0 ഓവർ 4 പൈ m ക്രോസ് r ഓവർ r ക്യൂബ് ആയിരിക്കുമെന്നും നമ്മൾ മുൻ പ്രഭാഷണത്തിൽ കണ്ടിരുന്നു ഇപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ കാണാൻ പോകുന്നത് എനിക്ക് സ്ഥിരമായ M കാന്തികശക്തി ഉള്ള ഒരു കാന്തിക വസ്തു ഉണ്ടെങ്കിൽ അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് അവസ്ഥയിൽ സ്ഥിരമായ ധ്രുവീകരണത്തിന് സമാനമായ ഒന്ന് അതിനാൽ ആ M യഥാർത്ഥത്തിൽ ഒരു യൂണിറ്റ് വ്യാപ്തിയിൽ ഉള്ള മാഗ്നറ്റിക് മൊമെന്റ്നെ പ്രതിനിധീകരിക്കുന്നു അപ്പോൾ ഇത് ബന്ധിതമായ വൈദ്യുതധാരകൾക്കും ഉപരിതല ബന്ധിത പ്രവാഹങ്ങൾക്കും തുല്യമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് അവസ്ഥയിലെ ധ്രുവീകരണം ബൾക്ക് ബദ്ധചോദനകൾക്കും ഉപരിതല ബദ്ധചോദനകൾക്കും തുല്യമാണ് വീണ്ടും ഇത് ചെയ്യുന്നതിനായി നമ്മൾ വെക്റ്റർ പൊട്ടൻഷ്യൽ ഉപയോഗിക്കുന്നു അതിനാൽ നമുക്ക് ഇത് r പ്രൈം എന്ന് എടുക്കാം ഞാൻ r ൽ വെക്റ്റർ പൊട്ടൻഷ്യൽ കണക്കാക്കുന്നുവെന്ന് കരുതുക അപ്പോൾ ഞാൻ ഇവിടെ r പ്രൈമിനു സമീപം d m മാഗ്നറ്റിക് മൊമെന്റ് ഉള്ള ഒരു ചെറിയ വ്യാപ്തം എടുക്കുന്നു ഇത് ഒരു ചെറിയ വ്യാപ്തമാണ് ഇത് r പ്രൈം d v പ്രൈമിലുള്ള M ന് തുല്യമാണ് Ar04πmrr3Mmagnetic momentvolume dmMrdV അതിനാൽ ഇത് കാരണം r ൽ ഉള്ള ഡിഫറൻഷ്യൽ വെക്റ്റർ പൊട്ടൻഷ്യൽ d A എന്നത് mu 0 ഓവർ 4 പൈ M r പ്രൈം d v പ്രൈം ക്രോസ് r മൈനസ് r പ്രൈം ഓവർ r മൈനസ് r പ്രൈം ക്യൂബ്ഡ് ആയിരിക്കും ഇവിടെ r മൈനസ് r പ്രൈം എന്നത് ആ പോയിൻറ്ൽ നിന്നും നമ്മൾ എടുക്കുന്ന പോയിൻറ്ലേക്കുള്ള വെക്ടറാണ് അതിനാൽ r ൽ ഉള്ള വെക്റ്റർ പൊട്ടൻഷ്യൽ A എന്നാൽ mu 0 ഓവർ 4 പൈ ഇന്റഗ്രൽ M r പ്രൈം ക്രോസ് r മൈനസ് r പ്രൈം ഓവർ r മൈനസ് r പ്രൈം ക്യൂബ്ഡ് d v പ്രൈം ആയിരിക്കും dAr04πMrdV×r rr r3 Ar04πMr×r rr r3dV ഇപ്പോൾ നമ്മൾ ഇവിടെ ചില വെക്റ്റർ മാറ്റങ്ങൾ നടത്തുകയും അത് M r പ്രൈം dv പ്രൈം പ്രൈം ഓഫ് 1 ഓവർ r മൈനസ് r പ്രൈം സംബന്ധിച്ച് ക്രോസ് ഗ്രേഡിയന്റിന് തുല്യമാണെന്ന് കാണിക്കുകയും ചെയ്യും ഇപ്പോൾ f ന്റെ കേൾ കണ്ടുപിടിക്കുന്ന ഒരു വെക്റ്റർ ഐഡന്റിറ്റി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നു ഇവിടെ A തവണയുള്ള കേൾ F എന്നത് ഗ്രേഡിയന്റ് F ക്രോസ് A പ്ലസ് f കേൾ A ക്ക് തുല്യമായിരിക്കും അപ്പോൾ കേൾ ഓഫ് 1 ഓവർ r മൈനസ് r പ്രൈം M r പ്രൈം ഇവിടെ ഞാൻ കേൾഎടുക്കുന്നത് പ്രൈം വേരിയബിളിനെ ആശ്രയിച്ചായിരിക്കും അതിനാൽ ഇത് ഗ്രേഡിയന്റിൻറെ പ്രൈം വേരിയബിളിനെ അപേക്ഷിച്ച് 1 ഓവർ r മൈനസ് r പ്രൈം ക്രോസ് M r പ്രൈം പ്ലസ് 1 ഓവർ r മൈനസ് r പ്രൈം പ്രൈം വേരിയബിൾ r പ്രൈമിനെ സംബന്ധിച്ച് കേൾ എടുക്കുന്നതിന് തുല്യമാണ് നിങ്ങൾക്ക് വ്യക്തമായി കാണാനായി ഞാൻ അത് വീണ്ടും വ്യത്യസ്ത നിറത്തിൽ എഴുതട്ടെ 1 ഓവർ r മൈനസ് r പ്രൈം M r പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം കേൾ എന്നത് പ്രൈം ഗ്രേഡിയന്റ് 1 ഓവർ r മൈനസ് r പ്രൈം ക്രോസ് M r പ്രൈം പ്ലസ് 1 ഓവർ r മൈനസ് r പ്രൈം കേൾ M r പ്രൈമിന് തുല്യമാണ്

Ar04πMr×r rr r3dV04πMr×1r rdV fAf×Af A 1r rMr1r rMr1r r×Mr നമുക്ക് ഈ പദങ്ങളുടെ വിപരീതം എടുക്കാം 1 ഓവർ r മൈനസ് r പ്രൈം പ്രൈം ക്രോസ് M r പ്രൈമിനെ സംബന്ധിച്ചിടത്തോളം അവയെ1 ഓവർ r മൈനസ് r പ്രൈം M r പ്രൈം മൈനസ് 1 ഓവർ r മൈനസ് r പ്രൈം കേൾ പ്രൈമിൻറെ കേളിനും തുല്യമാണെന്ന് നമുക്ക് എഴുതാം അതിനാൽ M r പ്രൈം ക്രോസ് ഡെൽ പ്രൈം 1 ഓവർ r മൈനസ് r പ്രൈം എന്നതിനെ മുൻപത്തെ പദപ്രയോഗത്തിൽ നിന്ന് ഗ്രേഡിയന്റിൻറെ സ്ഥാനം മാറ്റിയിരിക്കുന്നു അതിനാൽ ഇത് ഒരു മൈനസ് ചിഹ്നമായി മാറും അതായത് മൈനസ് കേൾ ഓഫ് M r പ്രൈം ഓവർ r മൈനസ് r പ്രൈം പ്ലസ് കേൾ ഓഫ് M r പ്രൈം ഓവർ r മൈനസ് r പ്രൈം ആയിരിക്കും 1r rMr×1r rMr 1r rMr Mr×1r r ×1r rMr1r rMr അതിനാൽ മുൻപത്തേതിൽ ഇന്റഗ്രൽ d v പ്രൈമിo ഇരുവശങ്ങളിലും ഉപയോഗിക്കുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഐഡന്റിറ്റി ഉപയോഗിക്കാൻ പോകുന്നു ഇത് ഒരു വ്യാപ്തത്തിൽ ഒരു വെക്റ്റർ അളവിന്റെ കേൾ അതേ ഉപരിതലത്തിൽ ഉള്ള n ക്രോസ് ആ വെക്റ്റർ അളവിന് തുല്യമാണെന്ന് പറയുന്നു അതിനാൽ ഇത് എന്താണ് അർത്ഥമാക്കുതെന്നാൽ എനിക്ക് ഒരു വ്യാപ്തo ഉൾക്കൊള്ളുന്ന ഒരു അടഞ്ഞ പ്രതലമുണ്ടെങ്കിൽ ഈ വ്യാപ്തത്തിൻറെ ഇന്റഗ്രൽ n ക്രോസ് v ക്ക് തുല്യമാണ് ഇവിടെ n ഈ ഉപരിതലത്തിൽ നിന്ന് പുറത്തുവരുന്നു നമുക്ക് ഇപ്പോൾ ഇത് വലതുവശത്തെ ആദ്യ ഇന്റഗ്രേഷനിൽ ഉപയോഗിക്കാം അതിനാൽ ഞാൻ M r പ്രൈം ക്രോസ് ഗ്രേഡിയന്റ് പ്രൈം ഓഫ് 1 ഓവർ r മൈനസ് r പ്രൈം ഇന്റഗ്രൽ ഡിവി പ്രൈമിനെ മൈനസ് ഗ്രേഡിയന്റ് പ്രൈം ക്രോസ് M r പ്രൈം ഓവർ r മൈനസ് r പ്രൈം d v പ്രൈം പ്ലസ് ഇന്റഗ്രൽ കേൾ ഓഫ് M r പ്രൈം ഓവർ r മൈനസ് r പ്രൈം ക്രോസ് d v പ്രൈമിന് തുല്യമാക്കി എഴുതാം ഇതിനെ വീണ്ടും ഇന്റഗ്രൽ മൈനസ് n പ്രൈം ക്രോസ് M r പ്രൈം ഓവർ r മൈനസ് r പ്രൈം d s പ്രൈം പ്ലസ് ഇന്റഗ്രൽ പ്രൈം ഓവർ M r പ്രൈം ഓവർ r മൈനസ് r പ്രൈം d v പ്രൈം എന്ന് എഴുതാം Mr×1r rdV Mrr rdVMrr rdV അതിനാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ എനിക്ക് മാഗ്നറ്റിക് മൊമെന്റ് M ഉള്ള ഒരു വ്യാപ്തം ഉണ്ടെങ്കിൽ അപ്പോൾ മൈനസ് ഉപരിതല ഇന്റഗ്രൽ n ക്രോസ് M എന്ന പദം എനിക്ക് ഉപരിതല പ്രവാഹം നൽകുന്നു ഇത് ബൾക്ക് കറന്റ് പോലെയാണ് എന്തുകൊണ്ടെന്നാൽ A ഇങ്ങനെ എഴുതാവുന്നതാണ് അതിനാൽ നമുക്ക് ഇത് വീണ്ടും നോക്കാം എനിക്ക് M ഉള്ള ഒരു വ്യാപ്തം ഉണ്ടെങ്കിൽ അതിൻറെ A r ൻറെ മൂല്യം ഇന്റഗ്രൽ മൈനസ് n പ്രൈം ക്രോസ് M r പ്രൈം ഓവർ r മൈനസ് r പ്രൈം d s പ്രൈം പ്ലസ് ഇന്റഗ്രൽ കേൾ ഓഫ് M r പ്രൈം ഓവർ r മൈനസ് r പ്രൈം d v പ്രൈമിന് തുല്യമായിരിക്കും ഇത് r പ്രൈമിലുള്ള ഉപരിതല പ്രവാഹം K ഓവർ r മൈനസ് r പ്രൈം d s പ്രൈം പ്ലസ് r പ്രൈമിലുള്ള ബൾക്ക് കറന്റ് J ഓവർ r മൈനസ് r പ്രൈം d v പ്രൈമിന് തുല്യമാണ് എന്നാൽ Ar n×Mr|r r|dSMr|r r|dVKr|r r|dSjr|r r|dV അതിനാൽ ഈ മാഗ്നറ്റിക് മൊമെന്റ്ൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇത് K എന്ന മൈനസ് n ക്രോസ് M ആയ ഒരു ഉപരിതല വൈദ്യുത പ്രവാഹത്തിന് തുല്യവും ഒരു ബൾക്ക് കറന്റ് J എന്ന കേൾ M എന്നിവയ്ക്ക് തുല്യവും ആണെന്നാണ് കൂടാതെ ഇവ സ്വതന്ത്ര വൈദ്യുതധാരകളല്ലാത്തതിനാൽ മുൻപ് ഉണ്ടായിരുന്ന ബദ്ധചോദനകൾ പോലെ അവയെ ബന്ധിത വൈദ്യുതധാരകൾ എന്ന് വിളിക്കുന്നു Kbound nM jboundM നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ എടുക്കാം എനിക്ക് z ദിശയിൽ ഏകീകൃത മാഗ്നറ്റിക് മൊമെന്റ് ഉള്ള ഒരു നീണ്ട സിലിണ്ടർ ഉണ്ടെങ്കിൽ M ന്റെ കേൾ 0 ആയിരിക്കും n ഉപരിതലത്തിൽ നിന്ന് പുറത്തുവരുന്ന ദിശയിലാണ് അതിനാൽ n സിലിണ്ടർ കോർഡിനേറ്റുകളിലെ S ന്റെ അതേ ദിശയിലാണ് S ക്രോസ് z നിങ്ങൾക്ക് മൈനസ് ഫൈ നൽകുന്നു അതിനാൽ മൈനസ് n ക്രോസ് M എന്നത് M ഫൈ അല്ലാതെ മറ്റൊന്നുമല്ല ഏകീകൃത കാന്തികവൽക്കരണവും ഫൈ ദിശയിലേക്ക് ഉപരിതല പ്രവാഹo M ഉള്ള ഈ നീണ്ട സിലിണ്ടർ കാന്തം ബൾക്ക് കറന്റില്ലാത്തതുമാണ് അതിനാൽ ഇത് ഉള്ളിൽ സ്ഥിരമായ ഫീൽഡ് ഉള്ള ഒരു സോളിനോയിഡ് ആയി മാറുന്നു അതിനാൽ അത് ഒരു സോളിനോയിഡ് ഫീൽഡ് പോലെ ആയിരിക്കും ഇനി എനിക്ക് z ദിശയിൽ M ഉള്ള വളരെ നേർത്ത വേഫർ അല്ലെങ്കിൽ നേർത്ത ഡിസ്ക് പോലെയുള്ള വസ്തു ഉണ്ടെങ്കിൽ ഇത് വൈദ്യുതധാരയുടെ ഒരു റിംഗ് പോലെയാകും അതിലൂടെ കടന്നു പോകുന്ന ആകെ വൈദ്യുതധാര ഈ വീതി d തവണ M ആയിരിക്കും ഈ മൂന്നാമത്തെ ഉദാഹരണം സ്ഥിരമായ കാന്തികവൽക്കരണമുള്ള ഒരു ഗോളമാണ് അപ്പോൾ വീണ്ടും M ന്റെ കേൾ 0 ആകും ഉപരിതല പ്രവാഹo K മൈനസ് n ക്രോസ് M ആയിരിക്കും ഈ സാഹചര്യത്തിൽ ഇത് മൈനസ് M r ക്രോസ് z യൂണിറ്റ് വെക്റ്റർ ആയിരിക്കും ഇത് എനിക്ക് M സൈൻ തീറ്റ ഫൈ നൽകുo അത് കാണാൻ വളരെ എളുപ്പമാണ് കാരണം z എന്നത് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ അല്ലാതെ മറ്റൊന്നുമല്ല r ക്രോസ് തീറ്റ മൈനസ് ഫൈ നൽകുന്നു അതിനാൽ K എന്നാൽ M സൈൻ തീറ്റ ഫൈ ആകുന്നു എന്നാൽ ഇത് ഒരു മുൻ പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ ഇത് എനിക്ക് ഒരു സ്ഥിരമായ കാന്തിക മണ്ഡലം B നൽകുന്നു ഇത് ഗോളത്തിനകത്ത് 2 mu 0 K ഓവർ 3 ആയിരിക്കും കൂടാതെ പുറത്ത് m ന് സമാനമായ ഒരു ഡൈപോൾ ഫീൽഡ് 4 പൈ ഓവർ 3 R ക്യൂബ്ഡ് M ആയിരിക്കും